ഈ പ്രഭാഷണത്തിൽ ഡിസ്ട്രിബ്യുട്ടഡ് ഇംപെഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് ഡിസൈൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് 1 ഗിഗാ ഹെർട്സിന് ശേഷം നമ്മൾ കൂടുതൽ ഉയർന്ന ഫ്രീക്ൻസിയിൽ ഇൻഡക്ടറുകൾ കപ്പാസിറ്ററുകൾ മുതലായവയെ ആശ്രയിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതോടൊപ്പം ഈ ഉയർന്ന ഫ്രീക്വൻസി സർക്യൂട്ടുകളിൽ ഈ എൽസി നിർമ്മിക്കുന്നതും ബുദ്ധിമുട്ടാണ് അതിനാൽ അതിന്റെ എൽ സി എന്നിവ തിരിച്ചറിയാൻ നമ്മൾ ഒരു ട്രാൻസ്മിഷൻ ലൈനുകളോ വേവ് ഗൈഡുകളോ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് അതിനാൽ ആ രൂപകൽപ്പനയെ ഡിസ്ട്രിബ്യൂട്ടഡ് ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു ഉയർന്ന ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിഷൻ ലൈനുകൾക്ക് നഷ്ടം കുറവാണ് അതിനാൽ ഈ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിനായി അവ ഉപയോഗിക്കുന്നു ഇപ്പോൾ മെയിൻ ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന ലൈനിൽ ഒരു പവർ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് ഇംപെഡൻസ് മാച്ചിങ്നായി നമ്മൾ ചില ഓക്സിലറി ട്രാൻസ്മിഷൻ ലൈനുകൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ ആ ട്രാൻസ്മിഷൻ ലൈൻ അടയ്ക്ക്കയോ തുറക്കുകയോ ചെയ്തേക്കാം അതിനെ സ്റ്റബ് എന്ന് വിളിക്കുന്നു അതിനാൽ എനിക്ക് ഒരു ഓപ്പൺ സ്റ്റബ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റബ് ഉണ്ടാകാം ഇപ്പോൾ അതിൽ നിന്ന് ഒരു പ്രധാന ലൈൻ ഉള്ളതിനാൽ ടോപ്പോളജി കാണിച്ചിരിക്കുന്ന ഷണ്ട് സ്റ്റബ് ബന്ധിപ്പിക്കാം അല്ലെങ്കിൽ അത് ഒരു സീരീസ് സ്റ്റബ് ആകാം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയെ ആശ്രയിച്ച് സീരീസ് ഷണ്ട് കണക്ഷനുകൾ തിരഞ്ഞെടുക്കുന്നു അതായത് സീരീസ് അല്ലെങ്കിൽ ഷണ്ട് അല്ലെങ്കിൽ ഷോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ അതായത് നിങ്ങൾക്ക് ഉള്ള മൈക്രോ സ്ട്രിപ്പ് ടെക്നോളജി അല്ലെങ്കിൽ സ്ട്രിപ്പ് ലൈൻ ടെക്നോളജി അല്ലെങ്കിൽ വേവ് ഗൈഡ് ടെക്നോളജി എന്നതുപോലുള്ള വിവിധ സാങ്കേതികവിദ്യകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് കാരണം ചില സന്ദർഭങ്ങളിൽ ഷോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ നിർമ്മിക്കുന്നത് എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് ചിലതിന് ദ്വാരങ്ങളിലൂടെ നോട്ടുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കൂടാതെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വലിയ ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ റേഡിയേഷൻ സംഭവിക്കാം അതിനാൽ അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ പരിഷ്ക്കരിക്കേണ്ടതുണ്ട് എന്നാൽ ഒരു മൈക്രോവേവ് എഞ്ചിനീയർ ഒരിക്കൽ ഒരു സ്റ്റബ് രൂപകൽപ്പന ചെയ്താൽ സ്മിത്ത് ചാർട്ട് നന്നായി അറിയാമെങ്കിൽ അയാൾക്ക് ഷോർട്ട് സ്റ്റബ്നെ ഓപ്പൺ സ്റ്റബ് ആക്കി മാറ്റൻ കഴിയും ഇത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു ഇത് ഓപ്പൺ സ്റ്റബും ഷോർട്ട് സ്റ്റബും ആണ് ഓപ്പൺ സ്റ്റബ് എന്നതിനർത്ഥം എൻഡിൽ 1 അറ്റത്തുള്ള സ്റ്റബ് ഷണ്ട് അല്ലെങ്കിൽ സീരീസ് ഫാഷനിൽ ട്രാൻസ്മിഷൻ ലൈനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റേ അറ്റം തുറന്നിട്ടിരിക്കുന്നു എന്നാൽ ട്രാൻസ്മിഷൻ ലൈനുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത 1 അറ്റം ഷോർട്ട് ചെയ്താൽ അതിനെ ഷോർട്ട് സ്റ്റബ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇതാണ് സിംഗിൾ സ്റ്റബ് മാച്ചിംഗ് നെറ്റ്വർക്ക് സിംഗിൾ സ്റ്റബ് മാച്ചിംഗിന് ലോഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് d നീളമുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഭാഗമുണ്ട് ഇവിടെ നിങ്ങൾക്ക് d ക്ക് ശേഷം ഒരു ഷണ്ട് അല്ലെങ്കിൽ ഒരു സീരീസ് സ്റ്റബ്ഉണ്ട് അത് ചിലപ്പോൾ L ലെങ്ത്തുള്ള ഓപ്പൺ ആയ ഒന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു സീരീസ് സ്റ്റബ് ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട് അതിനാൽ ഷണ്ട് സ്റ്റബിന്റെ കാര്യത്തിൽ ലോഡ് സാധാരണയായി അഡ്മിറ്റൻസ് പ്ലെയിനിൽ വിശകലനം നടത്തുന്നു കാരണം ലോഡ് ഇംപെഡൻസ് അതിലേക്ക് ഷണ്ട്സ് അഡ്മിറ്റൻസ് ചേർക്കുകയും ഒടുവിൽ ഇടതുവശത്ത് നിന്ന് സ്റ്റബ് കടന്നതിന് ശേഷം അത് ഒരു ക്യാരക്ടറിസ്റ്റിക് അഡ്മിറ്റൻസ് നോക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ അത് മാച്ച് ആകുകയും ചെയ്യുന്നു സിംഗിൾ സ്റ്റബ് മാച്ചിംഗ് നെറ്റ്വർക്ക് ഇതുപോലെ കാണപ്പെടും സ്റ്റബ് ട്രാൻസ്മിഷൻ ലൈനുമായി കണക്റ്റുചെയ്തതിനുശേഷം YL Y 0 മായി മാച്ച് ആകുന്നു സീരീസ് സ്റ്റബിന്റെ കാര്യത്തിൽ സാധാരണയായി നമ്മൾ ഇംപെഡൻസ് പ്ലെയിനിൽ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ ലോഡ് ZL ആയി കണക്കാക്കപ്പെടുന്നു തുടർന്ന് ട്രാൻസ്മിഷൻ ലൈനിലെ d ദൂരം പിന്നിട്ട ശേഷം അത് ഒരു പുതിയ ഇംപെഡൻസ് Z ആയി മാറുന്നു തുടർന്ന് സീരീസ് സ്റ്റബ് ഉപയോഗിച്ച് നിങ്ങൾ Z ലേക്ക് മാറ്റുന്നു അതിനാൽ ഇടത് അല്ലെങ്കിൽ സോഴ്സ് വശത്തുള്ള ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു Z0 കാര്യം കാണുവാൻ പറ്റുന്നു ഇപ്പോൾ ഇവിടെ ഈ രണ്ട് സാഹചര്യങ്ങളിലും ഒറ്റ സ്റ്റബ് മാച്ചിംഗ് നെറ്റ്വർക്ക് ആണുള്ളത് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റബും ആ സ്റ്റബ്ന്റെ സ്ഥാനവും മാത്രമേയുള്ളൂ ഇവയാണ് രൂപകൽപ്പന ചെയ്ത 2 പാരാമീറ്ററുകൾ അതിനാൽ d എന്നാൽ നിങ്ങൾ സ്റ്റബ് എവിടെ സ്ഥാപിക്കുന്നു അതായത് ലോഡിൽ നിന്നുള്ള ദൂരത്തെ d എന്ന് വിളിക്കുന്നു തുടർന്ന് സ്റ്റബിന്റെ ലിങ്കിനെ L എന്ന് വിളിക്കുന്നു ഇവയാണ് നിങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ട 2 കാര്യങ്ങൾ സ്റ്റബ് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് എന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ഔക്സിലറി പാർട്ട് ആണ് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസും പ്രധാന ലൈൻ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസും അവ പൊതുവെ ഒരേ പോലെയാണ് എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് കോആക്സിയൽ ലൈൻ അല്ലെങ്കിൽ വേവ് ഗൈഡുകൾ ഉള്ളപ്പോൾ ഒരു പ്രത്യേക തരം ഗൈഡ് എലമെന്റ് ലഭ്യമാണ് അതിനാൽ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് സാധാരണയായി അവിടെ മാറില്ല സ്റ്റബ് മാച്ചിങ്ങിന്റെ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റബ് മാച്ച് അവലോകനാമാണിത് ഇപ്പോൾ നിങ്ങൾക്ക് ഷണ്ട് ടൈപ്പ് ആണ് ഉള്ളതെങ്കിൽ ആദ്യം നിങ്ങൾ ഇംപെഡൻസ് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് പ്ലോട്ട് ചെയ്യണം ഷണ്ടിന്റെ കാര്യത്തിൽ അത് അഡ്മിറ്റൻസാണെങ്കിൽ നിങ്ങൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിലാണ് നീങ്ങുന്നത് അതിനാൽ ഒരു VSWR സർക്കിൾ വരയ്ക്കുന്നതാണ് നല്ലത് നമുക്ക് ഒരു ലോഡ് പ്ലോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ സെന്ററുമായി ബന്ധിപ്പിച്ച് VSWR സർക്കിൾ വരയ്ക്കാം യഥാർത്ഥത്തിൽ നിങ്ങൾ ട്രാൻസ്മിഷൻ ലൈനിൽ നീങ്ങുമ്പോൾ നിങ്ങൾ ശെരിക്കും ആ വിഎസ്ഡബ്ല്യുആർ സർക്കിളിൽ നീങ്ങുകയാണെന്ന് നമ്മൾ കണ്ടു അതിനാൽ അനുബന്ധ അഡ്മിറ്റൻസ് കണ്ടെത്തുക തുടർന്ന് ബാക്കി കണക്കുകൂട്ടലുകൾക്കായി ചാർട്ടിനെ ഒരു അഡ്മിറ്റൻസ് ചാർട്ടായി കണക്കാക്കുക ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഷണ്ട് ഡ്രോയിംഗ് അഥവാ ഷണ്ട് ഡിസൈൻ ആണ് VSWR സർക്കിളിനും 1 j B സർക്കിളിനും ഇടയിലുള്ള ഇന്റർസെക്ഷൻ പോയിന്റുകൾ കണ്ടെത്തുക നോർമലൈസ്ഡ് അഡ്മിറ്റൻസിൽ നിന്ന് ഇന്റർസെക്ഷൻ പോയിന്റുകളിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ജനറേറ്റർ ടേണിംഗ് ദൂരം നൽകുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഇത് നമ്മളുടെ സ്മിത്ത് ചാർട്ട് ആണെന്ന് കരുതുക ഇപ്പോൾ ആ സ്മിത്ത് ചാർട്ടിൽ നിങ്ങൾക്ക് പരിചിതമായ ഇവ ഞാൻ കണ്ടെത്തി എന്ന് കരുതുക ഇത് എന്റെ ലോഡ് ആണെന്നും കരുതുക ഇപ്പോൾ എനിക്ക് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയ VSWR സർക്കിളൾ വരയ്ക്കാം കൂടാതെ സ്മിത്ത് ചാർട്ട് പെരിഫെറിയിലെക്കും ജനറേറ്ററിലേക്കും എനിക്ക് വരയ്ക്കാനാകും ജനറേറ്ററിലേക്കുള്ളത് ഇതാണ് എന്ന് എനിക്ക് കണ്ടെത്താനാകും അതിനാൽ ഞാൻ നീങ്ങി ഇതിലേക്ക് വരാൻ ശ്രമിക്കും ഇതാണ് കോൺസ്റ്റന്റ് കണ്ടക്റ്റൻസ് സർക്കിൾ നമുക്ക് ഇത് സ്മിത്ത് ചാർട്ടിൽ പറയാം അതിനാൽ ഞാൻ അവിടെ വരാം അതിനാൽ ഇവിടെ എനിക്ക് ഒന്നുകിൽ ഈ പോയിന്റിലേക്ക് വരാം അല്ലെങ്കിൽ എനിക്ക് തുടർന്ന ശേഷം ഈ പോയിന്റിലേക്ക് വരാം അതിനാൽ ഇവയാണ് 2 പരിഹാരങ്ങൾ 1 കേസിൽ ഇതുപോലെ മറ്റൊരു കേസിൽ ഇത് പോലെ ഇപ്പോൾ ഈ 2 പരിഹാരങ്ങളുടെയും ഫ്രീക്വൻസി റെസ്പോൺസ് വ്യത്യസ്തമായിരിക്കും എന്നതിനാൽ ഇത് ഡിസൈനറെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് ഏത് 1 എടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ചിലപ്പോൾ അത് നിർമിക്കാനുള്ള ബുദ്ധിമുട്ടും ഏത് എടുക്കണം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കാരണം ആകാം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഈ ഭാഗം ട്രാൻസ്മിഷൻ ലൈനിന്റെ d ഭാഗം നൽകുന്നു എന്നുവെച്ചാൽ ലോഡിനും ഇത് മാറ്റുന്ന സ്റ്റബ്ബിനും ഇടയിലുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഭാഗം അതിനാൽ ട്രാൻസ്മിഷൻ ലൈനിലെ മാറ്റം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എത്ര ട്രാൻസ്മിഷൻ ലൈൻ ലിങ്ക് വായിക്കുവാൻ സാധിക്കും ഇതിന് ഇവിടെ ലാംഡ സ്കെയിലിൽ ഒരു ചാർട്ട് ഉണ്ട് ഇതിനും ലാംഡ സ്കെയിലിൽ ഒരു ചാർട്ട് ഉണ്ട് അതിനാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ സഞ്ചരിച്ച ദൂരം എത്രയെന്ന് കണ്ടെത്താനാകും അതോടൊപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് d എത്ര ലാംഡയാണെന്നും കണ്ടെത്താനാകും ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം മാച്ച് ചെയ്യുന്നതിന് ചാർട്ടിന്റെ സെന്റർലേക്ക് വരേണ്ടിവരുമെന്ന് നിങ്ങൾക്കറിയാം അത് സസ്സെപ്റ്റൻസ് വഴിയാണ് ചെയ്യുന്നത് അതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് ഈ പോയിന്റാണ് ഇതിന്റെ വാല്യൂ തീർച്ചയായും സസ്സെപ്റ്റൻസ് ആയിരിക്കും ഇവിടെ കാണുന്ന അഡ്മിറ്റൻസ് 1 j B ന്റെ വാല്യൂ ആയിരിക്കും അതിനാൽ അതിന്റെ നെഗറ്റീവ് ആകാൻ നിങ്ങൾ ഷണ്ട് സപ്സെപ്റ്റൻസ് തിരഞ്ഞെടുക്കുന്നു അതായത് മൈനസ് 1− j B ഉം അതിനാൽ നിങ്ങൾ − j B ആയ ഒരു സ്റ്റബ് തിരഞ്ഞെടുക്കുക നിങ്ങൾക്കത് ഇപ്പോൾ ചെയ്യാം അത് എങ്ങനെയാണ് ചെയ്തത് j B എന്നാൽ നിങ്ങൾക്ക് ഒരു ചെറിയ സ്റ്റബ് ഉണ്ടെന്ന് പറയാം അതിനാൽ ഷോർട്ട് എന്നാൽ അഡ്മിറ്റൻസ് 1 ൽ എന്താണോ അർത്ഥമാക്കുന്നത് ഇംപെഡൻസ് സ്മിത്ത് ചാർട്ടിൽ അതുതന്നെ ആണ് അഡ്മിറ്റൻസ് 1 ൽ ഇത് നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് ആണ് ഇതാണ് നിങ്ങളുടെ Y Y ഇൻഫിനിറ്റിക്ക് തുല്യമാണ് ഇതാണ് ഇവിടെ നിന്നുള്ള നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ − j B എവിടെയാണെന്ന് കണ്ടെത്തുക ഇത്രയും നീളം പെരിഫെറിയിൽ നിന്ന് വീണ്ടും വായിക്കുമ്പോൾ സ്റ്റബിന്റെ നീളം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ സ്മിത്ത് ചാർട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചതെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് പിന്തുടരാം ഇവിടെ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നു YL ബാർ പോയിന്റ് കണ്ടെത്തുക എന്നതാണ് ആദ്യ സ്റ്റെപ് അതിനുശേഷം VSWR സർക്കിൾ വരയ്ക്കുക എന്നിട്ട് VSWR സർക്കിൾ 1 j B സർക്കിളിനെ മുറിക്കുന്ന 2 പോയിന്റുകൾ കണ്ടെത്തുക ഇതിൽ ഓരോന്നും d യുടെ പരിഹാരം നൽകുന്നു പിന്നീട് ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും തുടർന്ന് ഈ മൂല്യങ്ങൾ Y 1 കണ്ടെത്തുക അതിനാൽ j B1 ഉം j B2 ഉം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ സ്റ്റബ് സപ്സെപ്റ്റൻസ് j B1 അല്ലെങ്കിൽ മൈനസ് j B2 ഉണ്ട് ഷോർട്ട് സ്റ്റബ് ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് ആരംഭിച്ച് − j B 1 മുതലായവയിൽ എത്താൻ പുറം പെരിഫെറിയിലൂടെ ജനറേറ്ററിലേക്ക് നീങ്ങുന്നു അതിനാൽ ദയവായി ഇതിലൂടെ കടന്നുപോകുക അതിനെ അടിസ്ഥാനമാക്കി സ്മിത്ത് ചാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തതെന്തും നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സീരീസ് സ്റ്റബിനുള്ളതാണ് ഇവിടെ നിങ്ങൾ അഡ്മിറ്റൻസ് പ്ലെയിനിലേക്ക് പോകേണ്ടതില്ല ആദ്യം നിങ്ങളുടെ ലോഡ് ഇംപെഡൻസ് കണ്ടെത്തുക തുടർന്ന് നിങ്ങൾ ആ കോൺസ്റ്റന്റ് VSWR സർക്കിൾ വരയ്ക്കുക അവർ സ്മിത്ത് ചാർട്ടിൽ ഉണ്ടെന്ന് നിങ്ങൾ കാണാൻ സാധിക്കും തുടർന്ന് ZL കണ്ടെത്തി നിങ്ങൾ VSWR സർക്കിൾ വരച്ചു ഈ VSWR സർക്കിൾ ഈ 1 j X സർക്കിളിനെ 2 പോയിന്റിൽ 1 പോയിന്റിൽ കുട്ടിമുട്ടുന്നു ഇതാണ് മറ്റൊരു പോയിന്റ് അതിനർത്ഥം നിങ്ങളുടെ ലോഡിൽ നിന്ന് അല്ലെങ്കിൽ ജനറേറ്ററിലേക്കുള്ള ലോഡിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വരാം അതിനാൽ ഈ നീളം 2 പരിഹാരങ്ങൾ ഉണ്ടാകും കാരണം ഇവയെല്ലാം അർത്ഥമാക്കുന്നത് ഈ നീളം ZL ആണ് എന്നാണ് നിങ്ങൾ ഔട്ടർ പെരിഫെറിയിൽ നിന്ന് ഇവിടേക്ക് എത്രമാത്രം വന്നുവെന്ന് കണ്ടെത്താൻ സാധിക്കും അത് നിങ്ങളുടെ d ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പരിഹാരം എടുക്കുന്നു അതിനാൽ നിങ്ങൾ ഈ പരിഹാരം ഇവിടെ എടുത്തുവെന്ന് കരുതുക ഇപ്പോൾ നിങ്ങളുടെ റിയാക്റ്റൻസ് വാല്യൂ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക ആ റിയാക്റ്റൻസ് വാല്യൂ സ്കെയിലിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും വ്യക്തമായും ഇവിടെ റിയാക്റ്റൻസ് നെഗറ്റീവ് ആണ് അതിനാൽ കുറച്ച് വാല്യൂ കുറയ്ക്കുക അതായത് ഈ സ്റ്റബ്ന്റെ റിയാക്റ്റൻസ് ഇവിടെ കിട്ടിയതിന്റെ പോസിറ്റീവ് മൂല്യമായി ഞാൻ എടുക്കും റിയാക്റ്റൻസിന്റെ നെഗറ്റീവ് ഇവിടെ എടുക്കും ഷോർട്ട് ന് ഇത് ഓപ്പണിന് ഓപ്പൺ എന്നാൽ വലതിന്റെ അവസാന ഭാഗത്താണ് അതിനാൽ ഈ വലതുവശത്ത് അവസാനത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ പുറം ചുറ്റളവിൽ എത്തുന്നു ഞാൻ ആഗ്രഹിച്ച സസെപ്റ്റൻസ് പോയിന്റിൽ നീങ്ങേണ്ടിവരും ഇതെല്ലാം തന്നെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാണാം കാരണം ഉദാഹരണങ്ങളില്ലാതെ ഇത് ബുദ്ധിമുട്ടാണ് പക്ഷേ സ്റ്റെപ്സ് ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ സ്റ്റെപ്സ് കുറിച്ചെടുക്കുക സ്മിത്ത് ചാർട്ടിൽ നിന്ന് ഈ നീളം എത്രയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇത് സ്മിത്ത് ചാർട്ടിൽ നിന്ന് കണ്ടെത്താനാകും ഇതാണ് സിംഗിൾ സ്റ്റബ് മാച്ചിങ്നെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ സിംഗിൾ സ്റ്റബിന്റെ ഈ ഫ്രീക്വൻസി റെസ്പോൺസിൽ സമാന രൂപകൽപ്പനയാണ് കാണുന്നത് നമ്മൾ ചില മൂല്യങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയാം അതായത് d 0 26 λ d എന്നാൽ ലോഡിൽ നിന്നുള്ള സ്റ്റബിന്റെ സ്ഥാനം എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഒരു ലോഡ്ന്റെ റെസിസ്റ്റീവ് പാർട്ട് 60 ഓം ആണ് മറ്റൊന്ന് കുറച്ച് കപ്പാസിറ്റൻസ് ഉണ്ടെന്ന് പറയാം അതിനാൽ ലോഡ് 15 82 പ്ലസ് ആണ് അത് ഇവിടെ പരിവർത്തനം ചെയ്യുമ്പോൾ ഇതിനെ Z1 എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ Z1 നൽകിയിരിക്കുന്നു ഇപ്പോൾ Z2 സ്റ്റബ് പാർട്ട് ആണ് നിങ്ങൾക്ക് ഒരു ഷോർട്ട്ഡ് ട്രാൻസ്മിഷൻ ലൈൻ അറിയാം ഷോർട്ട്ഡ് ട്രാൻസ്മിഷൻ ലൈൻ അതിന്റെ റെസിസ്റ്റൻസ് j Z0 ടാൻ βl ഇപ്പോൾ ടാൻ βl ആണ് തീർച്ചയായും ഇത് എൽ ആണ് അതിനാൽ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലാണ് ഡിസൈൻ നടപ്പിലാക്കിയതെന്ന് നമുക്ക് പറയാം നമ്മൾ λ0 എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക λ ഉണ്ട് 2 ഗിഗാ ഹെർട്സ് എന്ന് നമുക്ക് പറയാം ഈ സാഹചര്യത്തിൽ ഡിസൈൻ 2 ഗിഗാ ഹെർട്സിൽ ചെയ്തതാണെന്ന് വ്യക്തമാക്കുകയാണെങ്കിൽഅതായത് 2 ഗിഗാ ഹെർട്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് 15 സെന്റീമീറ്റർ ലാംഡയാണ് അതിനാൽ നമ്മളുടെ എല്ലാ λ0 15 സെന്റിമീറ്ററാണ് നമ്മൾ പറയുമ്പോൾ d എന്നത് 0 26 ലാംഡയ്ക്ക് തുല്യമാണ് അതിനാൽ നമ്മുടെ നീളം യഥാർത്ഥത്തിൽ 0 26 മുതൽ 15 സെന്റീമീറ്റർ വരെ ആയിരിക്കും എന്നാൽ മറ്റ് ഫ്രിക്വൻസികളിൽ ഇത് 0 26 ലാംഡ അല്ല അത് മറ്റൊരു കാര്യമാണ് അതിനാൽ മറ്റൊരു ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ ഈ ഇംപെഡൻസ് നെറ്റ്വർക്കിൽ നൽകിയാൽ ചില റിഫ്ലക്ഷൻ ഉണ്ടാകും അതിന് 0 അല്ലാത്ത റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റും ഉണ്ടാകും ചിലത് 0 അല്ലാത്ത മൂല്യമാണ് അതിനാൽ βl ന്റെ ടേമ്സിൽ ഈ Z2 നെ പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും βl എന്നത് ട്രാൻസ്മിഷൻ ലൈനിന്റെ ഒരു വൈദ്യുത ലെങ്ത് ആണ് βl β ആയിരിക്കാം ഇത് 2 π λ ആയ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഒരു ഫെയ്സ് കോൺസ്റ്റന്റ് നിങ്ങൾക്കറിയാം അതിനാൽ നമ്മൾ അതിനെ 2 π λ എന്ന് വിളിക്കുന്നു ആ ലാംഡയുടെ കുറച്ച് ഭാഗമാണ് l അതിനാൽ βl നെ ff 0 ആയി പ്രകടിപ്പിക്കാം അതിനാൽ f f 0 ന് തുല്യമാകുമ്പോൾ അത് ഒരു ഡിസൈൻ ഫ്രീക്വൻസിയാണ് എന്ന് അർത്ഥമാക്കുന്നു ഇനി യഥാർത്ഥ ഫ്രീക്വൻസിയും അതാണെങ്കിൽ അത് βl ആണ് അല്ലെങ്കിൽ അത് 2 54 ആണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ടേമ്സിൽ Z1 Z2 എന്നിവയെ പ്രതിനിധീകരിക്കാം ഇപ്പോൾ ഷണ്ട് കേസിൽ ടോട്ടൽ Z¿ ഇതാണ് ഇപ്പോൾ ഇത് f f 0 ൽ ആണ് ഇത് Z Z¿ ആണ് എന്നാൽ മറ്റൊന്നിൽ മറ്റ് ചില Z¿ ≠ Z0 ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്ന റിഫ്ലക്ഷൻ ഉണ്ടാകും നമ്മൾ 2 പരിഹാരങ്ങൾ കണ്ടതുകൊണ്ട് ഒരു പ്രത്യേക പ്രശ്നത്തിൽ നമ്മൾ അത് പ്ലോട്ട് ചെയ്തു അതിനാൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയാം നിങ്ങൾ ആ പരിഹാരം 1 ഉം പരിഹാരം 2 ഉം കാണുന്നു ഒന്നുകിൽ നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ഇവിടെയാണ് വരുന്നതെന്ന് ഓർക്കുക അതുപോലെ ഈ 2 നെ ആശ്രയിച്ച് നിങ്ങളുടെ സസെപ്റ്റൻസ് എത്രയാണ് d യും സസെപ്റ്റൻസും വ്യത്യസ്തമാണ് അതിനാൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ എന്റെ ടോളറൻസ് ഉറപ്പിച്ചാൽ ഡിസൈൻ ഫ്രീക്വൻസി 2 ഗിഗാ ഹെർട്സിൽ നിങ്ങൾ കാണുന്ന റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് രണ്ട് പരിഹാരത്തിനും 0 ആണ് എന്നാൽ ഞാൻ സമീപത്തായിരിക്കുമ്പോൾ ചില റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ഉണ്ട് അതിനാൽ ചില മിസ്മാച്ച് ഉണ്ടാകും കുറച്ച് പവർ നഷ്ടം ഉണ്ടാകും ഇപ്പോൾ ആപ്ലിക്കേഷനെ ആശ്രയിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വൈദ്യുതി നഷ്ടമാകുമെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അതിനാൽ അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഹോറിസോൺഡൽ ലൈൻ വരയ്ക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നിങ്ങളുടെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണെന്ന് കരുതുക ഗ്രാഫ് ഇപ്പോൾ ഇതുപോലെയാണ് ഇവിടെ ഇത് നിങ്ങളുടെ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡ് ആണ് ഇത് എന്റെ പരമാവധി ആണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിനാൽ ഇത് ഇംപെഡൻസ് വാലിഡ് ആയ ഉപയോഗിക്കാവുന്ന ബാൻഡ്വിഡ്ത്ത് ആണ് അതായത് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ഇതിനപ്പുറം പോകുന്നില്ല പവർ നഷ്ടം ബാൻഡ്വിഡ്ത്ത് എന്നതിന്റെ പരിധിക്കപ്പുറമല്ല അതിനാൽ നിങ്ങളുടെ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ടോളറബിൾ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് എവിടെയാണ് നിങ്ങൾ സ്ഥാപിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ബാൻഡ്വിഡ്ത്ത് വ്യത്യസ്തമായിരിക്കും നമ്മൾ വിശാലമായ ബാൻഡ്വിഡ്ത്ത് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് അതിനാൽ ഈ സാഹചര്യത്തിൽ പോയിന്റ് 1 എന്നത് നമ്മുടെ പരമാവധി ടോളെറബിൾ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡ് ആണെന്ന് കരുതുക തീർച്ചയായും ഞാൻ പരിഹാരം 2 തിരഞ്ഞെടുക്കും അതേസമയം ഇതല്ല 0 5 ആണ് എന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് ആരെങ്കിലും പറഞ്ഞാലും ഞാൻ പരിഹാരം 2 തിരഞ്ഞെടുക്കും കാരണം അതിന്റെ രണ്ടാം ഭാഗത്തിൽ കൂടുതൽ വിശാലമായ ബാൻഡ്വിഡ്ത്ത് ഏത് പരിഹാരത്തിൽ നിന്നാണ് അയാൾക്ക് ലഭിക്കുന്നത് ആ പരിഹാരമാണ് അവൻ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു ഡിസ്റ്റിങ്ക്ഷൻ പോയിന്റ് എന്തെന്നാൽ ഈ 2 പരിഹാരങ്ങൾക്ക് ട്രാൻസ്മിഷൻ ലൈനുകളുടെ വ്യത്യസ്ത ലിങ്കുകൾ ഉണ്ടായിരിക്കും മെക്കാനിക്കൽ നിർമ്മാണം കാരണം സ്റ്റബ്കൾ ഇപ്പോൾ വലുതാകുന്നതും വളരെ ചെറുതാകുന്നതും പ്രശ്നമാകാം അതിനാൽ മറ്റ് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ആ സമയം നിങ്ങൾ ചെയ്യേണ്ടി വരും എന്നാൽ ഈ ശാസ്ത്രീയ വിശകലനം നിങ്ങളൾക്ക് തുണയായുണ്ട് ഇപ്പോൾ സിംഗിൾ സ്റ്റബ് മാച്ചിംഗിന്റെ പോരായ്മ എന്താണ് ലോഡ് മാറ്റുകയാണെങ്കിൽ പുനർരൂപകൽപ്പന ചെയ്യേണ്ട സ്റ്റബ് പ്രത്യേകിച്ച് സ്റ്റബ്ന്റെ സ്ഥാനം പുനർരൂപകൽപ്പന ചെയ്യണമെന്ന് നിങ്ങൾ കാണുന്നു അതായത് d എന്നത് വ്യത്യാസപ്പെടും കാരണം സ്മിത്ത് ചാർട്ടിൽ ഈ പോയിന്റിന് പകരം ഞാൻ ഈ ഘട്ടത്തിലാണെന്ന് കരുതുകയാണെങ്കിൽ വ്യക്തമായും എന്റെ വരവ് വ്യത്യസ്തമായിരിക്കും അതിനാൽ ആ ഡി വ്യത്യസ്തമായിരിക്കും ലോഡിൽ നിന്ന് ആ സ്റ്റബ് പൊസിഷൻ വേരിയബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വിവിധ ലോഡുകൾ ട്യൂൺ ചെയ്യാൻ ഒരൊറ്റ ട്യൂണർ ഉപയോഗിക്കുവാൻ സാധിക്കില്ല അതിനാൽ സിംഗിൾ സ്റ്റബ് മാച്ചിംഗിന്റെ പോരായ്മകൾ അതാണ് ആളുകൾ ഒരു ഇരട്ട സ്റ്റബ് ട്യൂണിംഗുമായി വരുന്നു അവിടെ 1 സ്റ്റബ് ട്യൂണിംഗ് അല്ല മറിച്ച് 2 സ്റ്റബുമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ 1 നിശ്ചയിച്ചിരിക്കുന്ന d എന്ന് വിളിക്കപ്പെടുന്ന സ്റ്റബ്കൾ തമ്മിലുള്ള അകലം നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ സ്റ്റബ് സ്ഥാനങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നു ആദ്യ പകുതിയിലേക്ക് ലോഡ് ഉടൻ കണക്റ്റ് ചെയ്തിരിക്കുന്നു തുടർന്ന് രണ്ടാമത്തെ സ്റ്റബ്മായി കണക്റ്റ് ചെയ്തിരിക്കുന്ന ഡി ഉണ്ട് അപ്പോൾ എന്താണ് ഡിസൈൻ ഈ കുറ്റിച്ചെടികളുടെ നീളം എത്രയെന്നതാണ് ഡിസൈൻ അതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾ മാച്ച് ചെയുന്ന ഒരു ഡിസൈൻ കാണുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ ഷണ്ട് സ്റ്റബുകൾ എടുത്തിട്ടുണ്ട് അതിനാൽ ZL ന് പകരം YL ൽ നിന്നുള്ള ലോഡ് YL ആയി പ്രതിനിധീകരിക്കാം ഇവിടെ എനിക്ക് ഈ YL j B1 ആയിരിക്കും ഇവിടെ അഡ്മിറ്റാൻസ് ആയി ലഭിക്കുക അപ്പോൾ എനിക്ക് ഒരു ട്രാൻസ്മിഷൻ ലൈനിലൂടെ d ദൂരം നീങ്ങികൊണ്ട് ഇവിടെക്ക് വരേണ്ടതായി വരും നമ്മളുടെ ലാബിൽ ഇത് എങ്ങനെ ഒരു ഇരട്ട സ്റ്റബ് ട്യൂണറാണെന്ന് ഇപ്പോൾ നിങ്ങൾ കാണും ഇത് 1 സ്റ്റബ് ആണ് ഇത് മറ്റൊരു സ്റ്റബ് ആണ് ഇതാണ് ലോഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇതും ലോഡും നമ്മൾ ബന്ധിപ്പിക്കുന്നു ഈ വശത്ത് നമ്മൾക്ക് സോഴ്സ് നൽകുന്നു ഇത് നിങ്ങൾ കണ്ട കാര്യേജ് ആണ് ഇത് നിങ്ങൾക്ക് മുഴുവൻ കാര്യവും നിരീക്ഷിക്കാൻ കഴിയുന്ന മീറ്ററാണ് ഇത് അവയുടെ നീളം കുറയ്ക്കുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവ മാറ്റാൻ കഴിയും അവ മടക്കാവുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് നീളം മാറ്റാം നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്ന 2 കാര്യങ്ങൾ ഇവയാണ് നിങ്ങളുടെ ലാബിലും ഇത് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു Γ |Γ |e− j∠θ L e− j 2 βl ഇത് നമ്മൾ ഉപയോഗിക്കുന്നു അതിനാൽ ട്രാൻസ്മിഷൻ ലൈനിലൂടെയുള്ള d ദൂരത്തിന്റെ മൂവ്മെന്റ് അർത്ഥമാക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് β2 π λ കണ്ടെത്താനാകും എന്നാണ് അതിനാൽ ട്രാൻസ്മിഷൻ ലൈനിലൂടെയുള്ള d ദൂരത്തിന്റെ മൂവ്മെന്റ് വിഎസ്ഡബ്ല്യുആർ സർക്കിളിലൂടെയുള്ള 4 πd λ ആംഗിൾ റൊട്ടേഷൻ എന്നും അർത്ഥമാക്കുന്നു ട്രാൻസ്മിഷൻ ലൈനിലൂടെ നീങ്ങുന്നുവെന്നാൽ VSWR സർക്കിളിലൂടെ നീങ്ങുന്നു എന്നാണ് ഇത് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ ഈ ദൂരം λ 2 ആണെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻ ചലിക്കുന്നത് 90 ഡിഗ്രി ആയിരിക്കും 2 λ 2 ന്റെ ഈ ചലനം 180 ഡിഗ്രി 3 λ 8 ചലനം 370 ഡിഗ്രിയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഈ ds ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ പൊതുവെ അവ ഇതുപോലെ λ 8 അല്ലെങ്കിൽ 3 λ 8 ആയി എടുക്കുന്നു അതായത് 90 ഡിഗ്രി അല്ലെങ്കിൽ 270 ഡിഗ്രി ഇപ്പോൾ നിങ്ങൾ അതിന്റെ സൌന്ദര്യം കാണുന്നു അതായത് സ്മിത്ത് ചാർട്ടിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെന്ന് കരുതുക ഇത് 1 j X അല്ലെങ്കിൽ 1 j B സർക്കിൾ ആണെന്ന് നിങ്ങൾക്കറിയാം അത് എന്തുതന്നെ ആയാലും നിങ്ങൾ ഇപ്പോൾ ഇതിന്റെ 90 ഡിഗ്രി റൊട്ടേഷൻ അതേ വൃത്തമായിരിക്കും അതായത് ഒരു 90 ഡിഗ്രി റിഫ്ലക്ഷൻ ഇതിന് 1 എനിക്ക് ഈ സെന്റർ ഉണ്ട് ഞാൻ ഈ സെന്റർലേക്ക് മാറി അതിനാൽ ഞാൻ ഇവിടെ പോയിട്ടുണ്ട് ഇതിനെ ലോഡ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് കരുതുക ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിയാൽ ഞാൻ എവിടെയായിരിക്കും ഇപ്പോൾ ഞാൻ ഈ സർക്കിളിൽ ഉണ്ടെന്ന് കരുതുക അതിനാൽ അടിസ്ഥാനപരമായി ഈ ചലനം ജനറേറ്ററിലേക്കാണ് കാരണം ഈ വശം ജനറേറ്ററാണ് അതിനാൽ ഇവിടെ നിന്ന് d യുടെ ചലനം കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി വരെ വരും എന്നാണ് ഇതോടെ ഇരട്ട സ്റ്റബ് ട്യൂണിംഗിനുള്ള നടപടിക്രമം നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ഇപ്പോൾ പരിചിതമായ നിങ്ങളുടെ YL ഡാഷ് കണ്ടെത്തുക അതായത് അഡ്മിറ്റൻസ് അഥവാ ലോഡ് അഡ്മിറ്റൻസ് കണ്ടെത്തുക കോൺസ്റ്റന്റ് VSWR സർക്കിൾ വരയ്ക്കുക അതിനാൽ നമ്മൾ സ്മിത്ത് ചാർട്ടിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ ലോക്കേറ്റ് ചെയ്യുന്നു ഇത് നമ്മളുടെ YL ബാർ ആണെന്ന് പറയാം തുടർന്ന് എനിക്ക് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയ VSWR സർക്കിൾ ഇവിടെ സെന്റർ ആയി വെച്ചുകൊണ്ട് വരയ്ക്കാനാകും ഇപ്പോൾ നിങ്ങളുടെ d λ 8 ന് തുല്യമാണോ എന്നതിനെ ആശ്രയിച്ച് അതായത് 2 സ്റ്റബുകൾക്കിടയിലുള്ള ദൂരം λ 8 നിങ്ങൾ അതിനെ 90 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യുന്നു ഇത് റൊട്ടേഷൻ ചെയ്ത സർക്കിൾ മുറിക്കുന്നതിന് ജനറേറ്ററിലേക്ക് നീങ്ങുന്നത് പോലെയായിരിക്കും അതിനാൽ നിങ്ങളുടെ ലോഡ് പോയിന്റിൽ നിന്ന് റൊട്ടേഷൻ ചെയ്ത 1 j B സർക്കിൾ മുറിക്കുന്നതിന് നിങ്ങൾ ജനറേറ്ററിലേക്ക് നീങ്ങുന്നു അതിനാൽ നിങ്ങൾ ചില പോയിന്റ് മുറിക്കുന്നതിനായി മാറ്റുന്നു അതിനർത്ഥം നീങ്ങുമ്പോൾ നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് റെസിസ്റ്റന്റ് സർക്കിളിൽ ആണ് അങ്ങനെ നീങ്ങി ഒന്നുകിൽ ഈ പോയിന്റിലേക്ക് വരാം അല്ല നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ മറ്റേതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് വരാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ജനറേറ്ററിലേക്ക് d ദൂരം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഈ പോയിന്റിൽ 1 j B പോയിന്റിലെത്തും എന്നതാണ് അതിന്റെ ഭംഗി അതിനാൽ നമ്മൾ ചെയ്തത് എന്താണ് നമ്മൾ 2 പോയിന്റുകൾ വായിച്ച് 1 പോയിന്റ് എടുക്കുക l 1 കണ്ടുപിടിക്കുക പ്രധാന വരിയിൽ d ദൂരം നീക്കിയ ശേഷം ഈ പോയിന്റ് 1 j B സർക്കിൾളിൽ വീഴുന്നു 1 j B മൂല്യം നോട്ട് ചെയ്യുക അതിനാൽ നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റബ് ഈ j B യുടെ നഷ്ടപരിഹാരമായിരിക്കും അതായത് ആ സസ്സെപ്റ്റൻസ് മൈനസ് j B ആയിരിക്കും അതിനാൽ ഇത് ഷോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആണോ എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾ ഇപ്പോൾ സ്മിത്ത് ചാർട്ടിൽ നിന്ന് വീണ്ടും കണ്ടെത്തുന്നു അത് ചെറുതാണെങ്കിൽ ഷോർട്ട് പോയിന്റ് കണ്ടെത്തുക അതിനാൽ l ന് j B ലഭിക്കുന്നതിന് എത്രത്തോളം പോകണമെന്ന് നിങ്ങൾ കണ്ടെത്തും ഇതിൽ നിന്ന് നിങ്ങൾക്ക് l 2 ലഭിക്കും അതിനാൽ ഇത് ഇന്റർ സ്റ്റബ് ദൂരമാണ് ഇത് 1 പ്ലസ് j b സർക്കിളിന്റെ തൊണ്ണൂറ് ഡിഗ്രി റൊട്ടേഷനാണ് അല്ലെങ്കിൽ 1 j B സർക്കിൾ ഇത് λ 2 വേർതിരിക്കപ്പെട്ട 2 സ്റ്റബ് ആണ് അതിനാൽ റിഫ്ലക്ഷന് ശേഷം ഈ സർക്കിൾ ഇതാകുന്നു നിങ്ങൾ ഈ സർക്കിളിൽ വരാൻ ശ്രമിക്കുക λ 2 ന്റെ ഈ ചലനത്തിന് ശേഷം നിങ്ങൾ ഈ സർക്കിളിലേക്ക് വരുമെന്നും അവിടെ നിന്ന് നിങ്ങളെ സെന്റർലേക്ക് കൊണ്ടുവരുന്നത് സസെപ്റ്റൻസ് മാറ്റമാണെന്നും നിങ്ങൾക്കറിയാം ഇപ്പോൾ വീണ്ടും പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇവിടെ 2 പരിഹാരങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഏത് ലോഡിലും ഏത് സങ്കീർണ്ണമായ ലോഡും നിങ്ങൾക്ക് ഏത് യഥാർത്ഥ ലോഡുമായി മാച്ച് ചെയ്യാനാകും അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കാണും ഇത് ഒരു ഇംപെഡൻസ് മാച്ചിങ് കാര്യമല്ല പക്ഷേ ഇത് ഒരു ഇംപെഡൻസ് കൺവെർട്ടർ ആണ് ഇതിനെ ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കുന്നു ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ എന്നാൽ അത് ഒരു ലോഡിനും മറ്റേതെങ്കിലും ഇംപെഡൻസ് Z0 ഉള്ള ട്രാൻസ്മിഷൻ ലൈനിനുമിടയിൽ വെച്ചിരിക്കുന്ന ട്രാൻസ്മിഷൻ ലൈനിന്റെ ഒരു വിഭാഗമാണ് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർന്റെ ഇൻപുട്ടിൽ നമ്മൾക്ക് ട്രാൻസ്മിഷൻ മാച്ച് ലഭിക്കുന്നു അതിനാൽ ഇതിന് ഏത് യഥാർത്ഥ ലോഡുമായും മാച്ച് ചെയ്യാനാകും പക്ഷേ ഇതിന് സങ്കീർണ്ണമായ ഒരു ലോഡുമായി മാച്ച് ആകാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് ഇത് ഒരു പ്രശ്നമല്ല കാരണം ആ സ്റ്റബ് മാച്ചിംഗ് വഴി നിങ്ങൾക്ക് സങ്കീർണ്ണമായ ലോഡിനെ യഥാർത്ഥ ലോഡാക്കി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ നെറ്റ്വർക്കിന്റെ 2 ഭാഗങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് 2 വ്യത്യസ്ത ഇംപെഡൻസുകൾ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക അവ മാച്ച് ചെയ്തിട്ടുണ്ട് എന്നാലും അവയ്ക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് 1 50 ഓമിലും മറ്റൊന്ന് 100 ഓമിലും ആണെന്ന് കരുതുക അവ ചിലപ്പോൾ മാച്ച് ചെയ്തിരിക്കും ഇപ്പോൾ ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമറിന് ഈ ഇംപെഡൻസ് ലെവലുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയും ഇത് ഒരു ഇംപെഡൻസ് ട്രാൻസ്ഫോർമറാണ് ഇത് ഇപ്പോൾ മാച്ചിങ് കാര്യമല്ല ഏത് കോംപ്ലക്സും ഇതിന് ഏത് യഥാർത്ഥ ലോഡുമായി മാച്ച് ചെയ്യാനാകും ഇപ്പോൾ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നല്ലതല്ല ഇത് നാരോ ബാൻഡ് കൺവെർട്ടർ നാരോ ബാൻഡ് ട്രാൻസ്ഫോർമറാണ് ആണ് പക്ഷേ ഇത് ഉപയോഗിച്ച് നമുക്ക് വിവിധ ബ്രോഡ്ബാൻഡ് ഇംപെഡൻസ് മാച്ചിങ് ഡിസൈനുകൾ നിർമ്മിക്കാൻ കഴിയും അതിനാൽ അടുത്തതായി ഈ ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കുകൾ നമ്മൾ കാണും അവിടെ വിതരണം ചെയ്തവയ്ക്ക് ഫ്രീക്വൻസി പ്രതികരണമുണ്ടെന്നും ആ ഫ്രീക്വൻസി റെസ്പോൺസ് നാരോ ബാൻഡ് ആണെന്നും അർത്ഥമാക്കുന്നു അൾട്രാ വൈഡ് ബാൻഡ് സാങ്കേതികവിദ്യയുമായി വരുന്ന ഇന്നത്തെ ലോകത്ത് 15 ശതമാനതേക്കാൾ കൂടുതൽ നിങ്ങളുടെ സിഗ്നലിന് വളരെ വലിയ ബാൻഡ്വിഡ്ത്ത് ഉണ്ടായിരിക്കും 500 മെഗാ ഹെർട്സ് ബാൻഡ്വിഡ്ത്ത് മുതലായവ അതിനാൽ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്കിനും വൈഡ് ബാൻഡ് ഉണ്ടായിരിക്കണം എന്നാൽ ഈ ഡിസൈനുകൾക്ക് നിങ്ങൾക്ക് അത് നൽകാൻ കഴിയില്ല അതിനാൽ ബ്രോഡ്ബാൻഡ് ഡിസൈൻ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നത് നമ്മളുടെ അടുത്ത സംഭാഷണത്തിന്റെ വിഷയമായിരിക്കും